ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ കോഴ്സിലെ പതിനൊന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം നാം സെൻസർസിനെ കുറിച്ചാണ് ഇതുവരെ പഠിച്ചത് ആക്ചുവേറ്ററിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഓട്ടോമാറ്റിക് കൺട്രോൾസിനെകുറിച്ച് പഠിക്കുന്നത് കൂടുതൽ ഉപയോഗപ്രദം ആയിരിക്കും കാരണം ഒരുപാടു ആക്ചുവേറ്റർസ് സ്വയം ക്ലോസ്ഡ് ലൂപ് കൺട്രോൾ സിസ്റ്റംസ് ആണ് ഓട്ടോമാറ്റിക് കൺട്രോൾസിനെകുറിച്ച് പഠിച്ചതിനുശേഷം ആക്ചുവേറ്ററിലേക്ക് വരാം ഈ ലക്ചർ ഓട്ടോമാറ്റിക് കൺട്രോളിലേക്കുള്ള ആമുഖമാണ് ചില അടിസ്ഥാനപരമായ ആശയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അവസാനമായി പിഐഡി കൺട്രോളറിന്റെ അടിസ്ഥാന ഘടന നാം കാണുന്നതാണ് 90 95 വ്യാവസായിക കണ്ടിന്യൂസ് കൺട്രോളർസ് പിഐഡി കൺട്രോളർസ് ആണ് എന്തുകൊണ്ടാണ് ഈ കൺട്രോളറിന്റെ ഘടന വളരെയധികം ഉപയോഗപ്രദം എന്നു മനസ്സിലാക്കുകയാണ് ഈ ലക്ചറിന്റെ ലക്ഷ്യം ആദ്യം പ്രബോധന ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാം ഈ അധ്യായത്തിന് ശേഷം ഓട്ടോമാറ്റിക് കൺട്രോളിന്റെ പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കൺട്രോൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കണം സ്റ്റെബിലിറ്റി ഇൻസ്റ്റെബിലിറ്റിയുടെ മൂന്നു കാരണങ്ങൾ എന്നിവ നിർവചിക്കാൻ സാധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന സൂചകമായ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്താണെന്ന് നിർവചിക്കാനും അവ കുറയ്ക്കാനുള്ള വഴികൾ മനസ്സിലാക്കാനും സാധിക്കണം അതോടൊപ്പം ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന തടസ്സങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്ന് മനസ്സിലാക്കണം ഇവയെല്ലാം നമ്മെ പി ഐ ഡി കൺട്രോൾ എന്ന കൺട്രോൾ സ്ട്രക്ചറിലേക്ക് നയിക്കും നമുക്ക് വളരെ സുപരിചിതമായ ഓട്ടോമാറ്റിക് കൺട്രോൾ ലൂപ് എന്താണെന്ന് നോക്കാം ഓട്ടോമാറ്റിക് കൺട്രോൾസ് കോഴ്സ് നമ്മളിൽ പലരും ചെയ്തിട്ടുണ്ടാകാം ഇതാണ് സെറ്റ് പോയിൻറ് ഇതാണ് കൺട്രോളർ ഇതാണ് ആക്ചുവേറ്റർ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇത് കൺട്രോൾ എനർജി വർദ്ധിപ്പിച്ചു പ്ലാന്റിന് നൽകുന്നു ഇതാണ് പ്ലാൻറ് ഇതാണ് നമുക്ക് കണ്ട്രോൾ ചെയ്യേണ്ട ഔട്ട്പുട്ട് ഇതാണ് സെൻസറിൽ കൂടിയുള്ള ഫീഡ്ബാക്ക് ഇതാണ് എറർ എന്ന് അറിയപ്പെടുന്നത് ഓട്ടോമാറ്റിക് കൺട്രോളിന്റെ പ്രധാന ലക്ഷ്യം സ്റ്റെബിലിറ്റി നിലനിർത്തുക എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ ഒരു ഔട്ട്പുട്ട് ഒരു നിശ്ചിത ലെവലിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കണം ഔട്ട്പുട്ട് ഓടി മാറും എന്നോ ഓസിലേറ്റ് ചെയ്യുമെന്നോ അല്ല ഇത് അർത്ഥമാക്കുന്നത് ഔട്ട്പുട്ട് ഒരു നിശ്ചിത ലെവലിൽ എത്തി അവിടെ തന്നെ നിലനിൽക്കണം ഇതിനെയാണ് സ്റ്റെബിലിറ്റി എന്ന് വിളിക്കുന്നത് ഈ കോഴ്സിൽ നാം ഇതിന്റെ ഗണിത വശങ്ങൾ ചർച്ച ചെയ്യുന്നില്ല സ്റ്റെബിലിറ്റിയുടെ അടിസ്ഥാനപരമായ ആശയം സിഗ്നൽസ് തുടർച്ചയായി ചലിക്കാതെ സുസ്ഥിരമായി നിൽക്കണം എന്നതാണ് ഇത് ഓട്ടോമാറ്റിക് കൺട്രോളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് പ്രത്യേകിച്ച് സഹജമായി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊസസസ്സിന് ഇത് ഇല്ലാതെ പ്രോസസ് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല ഔട്ട്പുട്ട് ഒരു നിശ്ചിത ലവലിൽ നിലനിൽക്കും എന്ന് ഉറപ്പായാൽ ഇനി അവ ഒരു സെറ്റ് പോയിന്റിനെ പിന്തുടരണം സെറ്റ് പോയിന്റ് ടൈമിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഔട്ട്പുട്ടും ടൈമിന്റെ തന്നെ ഒരു ഫംഗ്ഷൻ ആണ് ഇവ രണ്ടും കഴിയുന്നത്ര സാദൃശ്യം പുലർത്തണം എന്നതാണ് നമ്മുടെ ആവശ്യം ഈ സാദൃശ്യം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ സെറ്റ് പോയിന്റ് ടൈമിന്റെ സ്റ്റെപ്പ് ഫങ്ക്ഷന്സ് ആണ് അവ സമയത്തിനനുസരിച്ച് ഇങ്ങനെ മാറുന്നു ഇതാണ് r ഇതാണ് t അതായത് നാം ഇത്തരം സ്റ്റെപ് റസ്പോൺസിന്റെകുറിച്ചും ഇത്തരം സെറ്റ് പോയിന്റിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് y r നോട് എത്രമാത്രം സാദൃശ്യം പുലർത്തുന്നു എന്നതിന്റെ ഡിഗ്രി ഓഫ് അക്യുറസി കാണിക്കാൻ വിവിധതരം ക്വാൺടിറ്റീസ് ഉണ്ട് സ്റ്റഡി സ്റ്റേറ്റ് എറർ റൈസ് ടൈം സെറ്റ്ലിഗ് ടൈം മുതലായവയാണ് അവ ഇത് കൂടുതൽ വിശദമായി പഠിക്കാം അതിനാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സെറ്റ് പോയിന്റിനെ പിന്തുടരുക എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഡിസ്റ്റർബൻസസിനെ തള്ളിക്കളയുക എന്നതാണ് അതായത് ഔട്ട്പുട്ട് r നു അടുത്തു വന്നാലും ബാഹ്യമായ പല സിഗ്നൽസും ഈ പ്രൊസസിനെ ബാധിക്കുന്നുണ്ട് ഇവയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല ഔട്ട്പുട്ട് ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ലോഡ് ഡിസ്റ്റർബൻസസ് പലപ്പോഴും കാണാറുണ്ട് അതേപോലെ ആക്ചുവേറ്ററിൽനിന്ന് ഇൻപുട്ട് ഡിസ്റ്റർബൻസസ് പലപ്പോഴും വരാം ആക്ചുവേറ്റർസ് പൊതുവേ ഒരു ആംപ്ലിഫയർ ആണ് ഇത് പവറിനെ ആംപ്ലിഫൈ ചെയ്യുന്നു പവറിനെ ആംപ്ലിഫൈ ചെയ്യുന്ന എന്തിനും ഒരു പവർ സോഴ്സ് ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു ഹൈഡ്രോളിക് ആക്ചുവേറ്ററിൽ ഒരു ഓയിൽ പ്രഷർ സോഴ്സ് ഉണ്ടായിരിക്കും ഇനി ഓയിലിൻറെ പ്രഷറിൽ മാറ്റം വന്നാൽ അത് ആക്ചുവേറ്ററിന് ഒരു ഇൻപുട്ട് ഡിസ്റ്റർബൻസ് ആയിരിക്കും അതേപോലെ മാനുഫാക്ചറിങിലെ റോളിങിന്റെ ഉദാഹരണം എടുക്കുക ഇവിടെ നമുക്ക് റോൾസിന്റെ സ്പീഡും റോൾസിന്റെ ഗ്യാപും നിയന്ത്രിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു മെറ്റൽ ബാർ ഇങ്ങനെ വന്നു കറങ്ങികൊണ്ടിരിക്കുന്ന റോൾസിനെ മുറുകെ പിടിക്കുമ്പോൾ അതിശക്തമായ ഒരു ടോർഘ് ഉണ്ടാകുന്നു ഈ ടോർഘ് ഒരുപാടു ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ബാറിന്റെ താപനില ആണ് ഇവയെയാണ് ലോഡ് ഡിസ്റ്റർബൻസസ് എന്ന് വിളിക്കുന്നത് അതേപോലെ നമ്മൾ എന്ത് സെൻസ് ചെയ്യുമ്പോഴും പലതരം നോയിസ് ഉണ്ടാകുന്നു ഇലക്ട്രോമാഗ്നെറ്റിക് നോയിസ് ഇലക്ട്രോസ്റ്റാറ്റിക് നോയ്സ് തുടങ്ങിയവ ഇവയാണ് ഫീഡ്ബാക്ക് ഡിസ്റ്റർബൻസസ് ലൂപിൽ എല്ലാ സമയത്തും പലതരം ഡിസ്റ്റർബൻസസ് ഉണ്ട് ഇവയാണ് ഔട്ട്പുട്ടിനെ r ൽ നിന്നും അകറ്റാൻ തുനിയുന്നത് അതിനാൽ കൺട്രോളറിന്റെ ജോലി എന്തെന്നാൽ ഔട്ട്പുട്ട് r ൽ നിന്നും അകലുമ്പോൾ ഒക്കെ ഒരു യോജിച്ച ഇൻപുട്ട് ഉണ്ടാക്കി ഔട്ട്പുട്ടിനെ r ലേക്ക് കൊണ്ടുവരിക എന്നതാണ് അങ്ങനെ ഡിസ്റ്റർബൻസസിനെ തടയാൻ സാധിക്കും ഇതാണ് ഓട്ടമാറ്റിക് കൺട്രോൾസിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം അതിനാൽ ഓട്ടമാറ്റിക് കൺട്രോൾസിന്റെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് സ്റ്റെബിലിറ്റി നിലനിർത്തുക സെറ്റ് പോയിൻറ് പിന്തുടരുക ഡിസ്റ്റർബൻസ് തടയുക അടുത്തതായി സ്റ്റെബിലിറ്റിയെകുറിച്ച് വിശദമായി പഠിക്കാം ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുന്നത് കോസ് എഫക്റ്റിനെ ഉണ്ടാക്കുമ്പോഴും എഫക്റ്റ് കോസിനെ ഉണ്ടാക്കുമ്പോഴും ആണ് ഉദാഹരണത്തിന് ഒരു ഇൻവെർട്ടഡ് പെൻഡുലം ഉണ്ടെന്നു കരുതുക ഇതൊരു വിജാഗിരിയിൽ ആണ് നിൽക്കുന്നത് ഇത് കുത്തനെ നിൽക്കുമ്പോൾ അതിന്റെ സ്ഥാനം നിലനിർത്തുന്നു ഇനി നിങ്ങൾ ഇതിനെ പതുക്കെ ഒന്ന് തള്ളിയാൽ പെൻഡുലം ഈ സ്ഥാനത്തേക്ക് വരുന്നു ഈ കോസ് ഒരു കോണിൻറെ എഫക്റ്റ് സൃഷ്ടിച്ചിരിക്കുന്നു ഈ എഫക്ട് കാരണം കുത്തനെ പ്രവർത്തിച്ചിരുന്ന ഗുരുത്വാകർഷണത്തിന് ഇങ്ങോട്ട് ഒരു ഘടകം ഉണ്ടായിരിക്കുന്നു ഈ ഘടകം കാരണം പെൻഡുലം ഒന്നുകൂടി ചലിച്ചു ഈ സ്ഥാനത്തേക്ക് വരുന്നു ഇവിടെയാണ് എഫക്ട് സൃഷ്ടിച്ച കോസ് എഫക്ട് ഒന്നുകൂടി ടോർഘ് സൃഷ്ടിച്ചു ഇതുകാരണം കോസ് വീണ്ടും സൃഷ്ടിക്കപ്പെട്ടു ഇതു വീണ്ടും എഫക്ട് സൃഷ്ടിച്ചു ഇത് ഒരു സ്റ്റേബിൾ പൊസിഷൻ അല്ല ഇത് അൺസ്റ്റേബിൾ ആണ് ഇതാണ് സ്റ്റെബിലിറ്റിയുടെ അടിസ്ഥാനതത്വം ഇത് പല വേരിയബിൾസിലും പല തരത്തിലാണ് പ്രകടമാവുക അടുത്തതായി എന്താണ് അൺസ്റ്റേബിൾ റസ്പോൺസ് ഇതിന് രണ്ട് വിശദീകരണങ്ങൾ ഉണ്ട് പ്ലാൻറ് ഓപ്പൺ ലൂപിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊരു സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റിലേക്ക് സാച്ചുറേറ്റ് ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു ഇൻഡക്ഷൻ മോട്ടോർ ടോർഘ് സ്പീഡ് കർവിന്റെ കാര്യമെടുക്കുക ഈ ഭാഗത്തു സ്പീഡ് ആണ് ഈ ഭാഗത്ത് ടോർഘ് ആണ് ഇതാണ് ടോർഘ് സ്പീഡ് കർവ് ഇതാണ് ഒരു ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് സ്പീഡ് വർദ്ധിക്കുമ്പോൾ ലോഡ് ടോർഘ് ഡിമാൻഡ് കൂടി വർദ്ധിക്കുന്നു ഇനി മോട്ടോർ ലോഡിലേക്ക് ബന്ധിപ്പിച്ച് സ്വിച്ച് ഓൺ ചെയ്യുന്നു എന്ന് കരുതുക ടോർഘ് കൂടുതലായതുകൊണ്ട് ആദ്യം തന്നെ മോട്ടോർ പ്രവർത്തിക്കുകയില്ല യഥാർത്ഥത്തിൽ ടോർഘ് ഇവിടെ വരുമെന്ന് അനുമാനിക്കേണ്ടത് ഉണ്ട് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെയാണ് ഓപ്പറേറ്റിങ് പോയിൻറ് ഇവിടെ ആണെന്ന് കരുതുക മോട്ടോർ ടോർഘ് ലോഡ് ടോർഘ് എന്നിവ ഒന്നുതന്നെയാണ് അതിനാൽ ഇതൊരു സ്റ്റേബിൾ ഓപ്പറേറ്റിങ് പോയിൻറ് ആണ് ലോഡ് ആവശ്യപ്പെടുന്ന ടോർഘ് മോട്ടോർ ഉണ്ടാക്കുന്നുണ്ട് ഇനി വേഗത കുറച്ചുകൂടി വർദ്ധിച്ചു മോട്ടോർ ഈ സ്ഥാനത്തെത്തിയാൽ ഉണ്ടായ ടോർഘ് പച്ചനിറത്തിൽ കാണിച്ചിരിക്കുന്ന ലോഡ് ടോർഘിനെക്കാളും അധികമാണ് ഈ അധികം ആയിട്ടുള്ള ടോർഘ് മോട്ടോറിന്റെ വേഗതയെ വർദ്ധിപ്പിക്കുന്നു ഇനി മോട്ടോർ ഈ പോയിന്റിലേക്ക് പോകുന്നു ഇവിടെ അധികം ആയിട്ടുള്ള ടോർഘ് ഉണ്ട് ക്രമേണ ഇത് ഈ പോയിന്റിൽ നിൽക്കുന്നു ഇവിടെ മോട്ടോർ ടോർഘ് ലോഡ് ടോർഘിന് തുല്യമാണ് എന്തെങ്കിലും കാരണം കൊണ്ട് വേഗത വർദ്ധിച്ചാൽ ഇത് ഈ പോയിന്റിലേക്ക് വരുന്നു പക്ഷേ ഇവിടെ ഉണ്ടായ ടോർഘ് ലോഡ് ടോർഘിന്റെ ആവശ്യത്തെക്കാൾ കുറവായിരിക്കും അതിനാൽ മോട്ടോർ പഴയ ഓപ്പറേറ്റിങ് പോയിന്റിലേക്ക് തന്നെ പോകാൻ തുനിയും സ്റ്റേബിൾ അൺസ്റ്റേബിൾ ഓപ്പൺ ലൂപ് ഓപ്പറേറ്റിംഗ് പോയിൻറ്സ് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒരു അൺസ്റ്റേബിൾ പോയന്റിൽ നിന്നും ദൂരേക്ക് പോകുമ്പോൾ ഇത് പിന്നെയും ദൂരേക്ക് പോയി അവസാനം ഒരു സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഉറച്ചുനിൽക്കുന്നു ഇതാണ് മോട്ടോർ ചെയ്യുന്നത് നേരെ മറിച്ച് ഒരു സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്ന് ദൂരേക്കു പോയാൽ അതേ പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു ഇത് ദൂരേക്ക് പോകില്ല നിങ്ങൾ കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ കൺട്രോളറിന്റെ ഒരു ജോലി അൺസ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയന്റിൽ പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് അതിനാൽ ആണ് കൺട്രോൾ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്നത് ഉദാഹരണം പ്രൊസസ് കൺട്രോൾ എയർക്രാഫ്റ്റ്സ് മോട്ടോർ തുടങ്ങിയവ വീണ്ടും പഴയ ഉദാഹരണത്തിലേക്ക് പോകാം ഇതാണ് ടോർഘ് സ്പീഡ് കർവ് ഇവിടെയാണ് ഓപ്പറേറ്റിംഗ് പോയിൻറ് ഇനി ഈ പോയിൻറ് ദൂരേക്കു പോകാൻ ശ്രമിക്കും പക്ഷേ കൺട്രോളർ മോട്ടോർ ടെർമിനൽ വോൾട്ടേജ് നിയന്ത്രിക്കാൻ ശ്രമിക്കും ഇതുകാരണം ടോർഘ് കുറഞ്ഞു ഇത് ഈ പോയന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു വീണ്ടും ഇത് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് പോകാൻ തുനിയുന്നു കൺട്രോളർ ഇതിനെ വീണ്ടും മുകളിലേക്ക് ഉയർത്തുന്നു ഒരു സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ സാച്ചുറേറ്റ് ആവാനുള്ള ഓപ്പൺ ലൂപ്പിൻറെ ശ്രമത്തെ കൺട്രോളർ തടയുന്നു അതായത് ഓരോ തവണയും ഒരു അൺസ്റ്റേബിൾ ലൂപിൽ നിന്നും ഒരു സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയന്റിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ കൺട്രോളർ തിരിച്ചു തള്ളുന്നു അടുത്ത ഓപ്പറേറ്റിങ് പോയന്റിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ കൺട്രോളർ വീണ്ടും തള്ളുന്നു ഇതാണ് സംഭവിക്കുന്നത് പ്ലാൻറ് ദൂരേക്ക് പോകാൻ തുനിയുന്നു കൺട്രോളർ തിരിച്ചു തള്ളുന്നു ഇവിടെ ഒരു ഓസിലേറ്റിങ് റെസ്പോൺസ് ഉണ്ടാകുന്നു ഒരുഅൺസ്റ്റേബിൾ റെസ്പോൺസിന്റെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത് ക്ലോസ്ഡ് ലൂപ് ഔട്ട്പുട്ട് സ്ഥിരമായ ഓസിലേഷൻസ് കാണിക്കുന്നു ഇതും ഒരുതരം ഇൻസ്റ്റബിലിറ്റി ആണ് ഒരു പ്ലാൻറ് ഓപ്പൺ ലൂപിലോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപിലോ പ്രവർത്തിക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക വിവിധ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താപനില മാറിക്കൊണ്ടിരിക്കുന്ന എക്സോ തെർമിക് റിയാക്ടർസ് എയർക്രാഫ്റ്റ്സ് മോട്ടോർസ് തുടങ്ങിയവ ഇതിൽ ചിലതാണ് എങ്കിലും പ്ലാൻറ് അൺസ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ പ്രവർത്തിപ്പിക്കാനായി നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കാം അതായത് ഓപ്പൺ ലൂപ് ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് അൺസ്റ്റേബിൾ ആയ പ്ലാന്റിനെ ഫീഡ്ബാക്ക് ഉപയോഗിച്ച് സ്റ്റേബിൾ ആയി പ്രവർത്തിപ്പിക്കാം പക്ഷേ ചിലപ്പോൾഫേസ് ലാഗ് പോലുള്ള ചില ഘടകങ്ങൾ കാരണം ഫീഡ്ബാക്ക് പോസിറ്റീവ് ആയി മാറാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഓസിലേഷനും ഇൻസ്റ്റബിലിറ്റിയുടെ മറ്റു ലക്ഷണങ്ങളും കാണുന്നത് ഇതാണ് പൊതുവേ സംഭവിക്കുന്നത് ഇനി ഫീഡ്ബാക്ക് ലൂപിൽ ഇൻസ്റ്റബിലിറ്റിയുടെ മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നു നോക്കാം ഇൻസ്റ്റബിലിറ്റി പ്രധാനമായും രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യത്തേത് ഈ ലൂപ്പിലെ ആകെയുള്ള ഫേസ് ലാഗ് 180 ഡിഗ്രിയിൽ കുറവായിരിക്കണം അല്ലാതെ ഇത് 180 ഡിഗ്രിയിൽ എത്തിയാൽ ഈ പോയിന്റിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയി മാറും രണ്ടാമത്തേത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് മാത്രം മതിയാകില്ല മതിയായ ലൂപ് ഗെയിൻ കൂടി ഉണ്ടാവണം അതായത് കോസ് എഫക്റ്റിനെ വർധിപ്പിക്കണം എഫക്ട് കോസിനെയും വർധിപ്പിക്കണം ഇതിന് വളരെയധികം ലൂപ് ഗെയിൻ ആവശ്യമുണ്ട് ഇതാണ് രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങൾ ആദ്യത്തേത് ഫേസ് ലാഗ് 180 ഡിഗ്രിയിൽ കുറവായിരിക്കണം 180 ഡിഗ്രിയോ അതിൽകൂടുതലോ ആയാൽ ആ ഫ്രീക്വൻസിയിൽ ഓസിലേഷൻസ് ആരംഭിക്കും കൂടാതെ ആ ഫ്രീക്വൻസിയിൽ ഗെയിൻ കൂടുതലായിരിക്കണം എങ്ങനെയാണ് ഫേസ് ലാഗ് വർദ്ധിക്കുന്നത് ഇത് പലതരത്തിൽ വർദ്ധിക്കും ഉദാഹരണത്തിന് സെൻസർ ഇൻപുട്ട് പ്ലാൻറ് ഇൻപുട്ട് എന്നിവയ്ക്കിടയിൽ ഡിലെ ഉണ്ടായാൽ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നിന്നാണ് മുമ്പ് ഔട്ട്പുട്ട് എടുത്തിരുന്നത് ഇനി ചില കാരണങ്ങൾ കൊണ്ട് ഔട്ട്പുട്ടിന്റെയും ഫീഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നലിന്റെയും ഇടയിൽ T സെക്കൻഡ്സ് ഡിലെ ഉണ്ടെന്ന് കരുതുക ഇത് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നു ഇതാണ് ഇൻസ്റ്റബിലിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതേപോലെ കൺട്രോളർ ഔട്ട്പുട്ടിന്റെയും പ്ലാൻറ് ഇൻപുട്ടിന്റെയും ഇടയിൽ ഡിലെ ഉണ്ടാകാം ഇതേ പോലുള്ള ഒരു ഡിലെ ബ്ലോക്ക് ഈ പോയിന്റിലും ഉണ്ടാകാം ഈ രണ്ടു പോയിന്റിനും ഇടയിലുള്ള ഡിലെ അല്ലെങ്കിൽ ഫേസ് ലാഗ് ആണ് ലൂപ് ഫേസ് ഡിലെ ഇത് ഇവിടെ ആകാം അല്ലെങ്കിൽ ഇവിടെ ആകാം അല്ലെങ്കിൽ ഇവിടെയും ആകാം ഇത് സെൻസറിലും ആകാം ഓട്ടോമാറ്റിക് കൺട്രോൾ പ്രൊസസ്സിൽ ഓൺലൈൻ അനലൈസർസിൽ തുടങ്ങി എവിടെയും ഈ ഡിലെ കാണാം ഇത് ഇവിടുന്ന് നേരിട്ടാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ യൂണിറ്റ് ഒരു ടൈം ഡിലെ ഉണ്ടാക്കുന്നു ഇതും സാധ്യമാണ് ഈ ലൂപ്പിൽ എവിടെയെങ്കിലും ഡിലെ ഉണ്ടായാൽ അത് ഇൻസ്റ്റ ബിലിറ്റിയുടെ ഒരു പ്രധാന കാരണമാണ് അടുത്തതായി ഡിലെ കൂടാതെ പലതരം ടൈം കോൺസ്റ്റൻസ് ഈ പ്രൊസസ്സിൽ ഉണ്ടാകാം ഉദാഹരണത്തിന് സെൻസറിൽ യൂണിറ്റി ഫീഡ്ബാക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് ഒരിക്കലും കൃത്യമായി യൂണിറ്റി ഫീഡ്ബാക്ക് അല്ല സെൻസർ ഹൌസിംഗ് ജാക്കറ്റ് മുതലായവയിൽ വച്ചിരിക്കുന്നതു കൊണ്ടാണ് ഇങ്ങനെയുള്ള ടൈം കോൺസ്റ്റൻസ് ഉണ്ടാവുന്നത് അതേപോലെയാണ് ആക്ചുവേറ്റർസ് കൺട്രോളർ ഔട്ട്പുട്ട് പ്ലാന്റിലേക്ക് നേരിട്ട് പോകുന്നു എന്നാണ് നാം കരുതുന്നത് പക്ഷേ ആക്ചുവേറ്റർറിലെ പവർ ആംപ്ലിഫിക്കേഷനിൽ കൂടിയാണ് ഇത് ആദ്യം കടന്നു പോകുന്നത് ഇത് ഡിലെ സൃഷ്ടിക്കുന്നു അതിനാൽ ഈ ടൈം കോൺസ്റ്റൻസും ഡിലെസും ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമാകുന്നു ഇവയാണ് പ്രോസസ്സ് ലൂപ്പിൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ